സ്വാഗതം ഇന്ന് വീണ്ടും ഐഗൻ വാല്യൂകളെയും ഐഗൻവെക്ടറുകളെയും കുറിച്ചുള്ള നമ്മളുടെ ചർച്ച തുടരും ഇത് ലെക്ച്ചർ നമ്പർ 50 ആണ് നമ്മൾ പ്രധാനമായും ഡയഗണലൈസേഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും കൂടാതെ ഇത് ലീനിയർ സമവാക്യങ്ങൾ പരിഹരിക്കുന്നതിനും മാട്രിക്സ്ന്റെ പവർ നേടുന്നതിനും മുതലായവയുടെ ആപ്ലിക്കേഷനുകളാണ് അപ്പോൾ മാട്രിക്സിന്റെ ഡയഗണലൈസേഷൻ എന്താണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യും അതിനാൽ ഒരു ഡയഗണൽ മാട്രിക്സ് ആകത്തക്ക വിധം ഒരു ഇൻവെർട്ടിബിൾ മാട്രിക്സ് P ഉണ്ടെങ്കിൽ സ്ക്വയർ മാട്രിക്സ് A ഡയഗണലൈസബ്ൾ ആണെന്ന് പറയപ്പെടുന്നു അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മാട്രിക്സുകളുടെ സിമിലാരിറ്റി ഈ ആശയം നമ്മൾ ഇതിനകം അവതരിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ A ഒരു ഡയഗണൽ മാട്രിക്സിന് സിമിലർ ആണെങ്കിൽ A നെ ഡയഗണലൈസബ്ൾ എന്ന് വിളിക്കുന്നു ഈ ഒരു ഡയഗണൽ മാട്രിക്സ് ആവുന്ന വിധത്തിൽ നമുക്ക് ഈ A എഴുതാൻ കഴിയുമെങ്കിൽ ഈ A ഡയഗണലൈസബ്ൾ ആണെന്ന് നമ്മൾ വിളിക്കുന്നു അതിനർത്ഥം ഈ A ഇവിടെയുള്ള ഡയഗണൽ മാട്രിക്സിന് സമാനമാണ് അതോടൊപ്പം P നമ്മൾ കണ്ടെത്തേണ്ട ഇൻവേഴ്സ് മാട്രിക്സ് ആണ് അതിനാൽ ഈ ഒരു ഡയഗണൽ മാട്രിക്സ് ആയി മാറുന്നു അതിനാൽ A എന്നത് ഒരു മാട്രിക്സ് ആയിരിക്കട്ടെ A എല്ലായ്പ്പോഴും ഡയഗണലൈസ് ചെയ്യാവുന്ന ഒരു മാട്രിക്സ് ആണ് എന്നത് നല്ല റിസൾട്ട് ആണ് അതായത് ഈ ഒരു ഡയഗണൽ മാട്രിക്സ് ആവുന്ന വിധത്തിൽ നമുക്ക് അത്തരം ഒരു P കണ്ടെത്താനാകും അതിനാൽ ഇവിടുത്തെ റിസൾട്ട് A ക്ക് n ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടറുകൾ ഉണ്ടെങ്കിൽ A ഡയഗണലൈസബ്ൾ ആണ് എന്നതാണ് അത് ഇവിടെ ഒരു നല്ല റിസൾട്ട് ആണ് ഈ ഐഗൻ വാല്യൂകളുമായി യാതൊരു ബന്ധവുമില്ല യഥാർത്ഥത്തിൽ നമ്മൾ ഐഗൻവെക്റ്റർ അന്വേഷിക്കണം അതിനാൽ നമുക്ക് n ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടറുകൾ ലഭിക്കുകയാണെങ്കിൽ A ഡയഗണലൈസ് ചെയ്യാവുന്നതാണ് നമുക്ക് ഈ n ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടറുകൾ ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ A ഡയഗണലൈസബ്ൾ അല്ല അതാണ് ഈ ലെക്ച്ചർന്റെ പ്രധാന റിസൾട്ട് നമ്മൾ ഇവിടെ ഔപചാരിക തെളിവുകളിലൂടെ കടന്നുപോകില്ല പക്ഷേ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിരവധി ഉദാഹരണങ്ങളുടെ സഹായത്തോടെ നമ്മൾ കാണും ഈ റിസൾട്ട്ന്റെ മറ്റൊരു അനന്തരഫലം നമുക്ക് ഇവിടെ ഉണ്ട് A ഇവിടെ ഒരു മാട്രിക്സ് ആണെങ്കിൽ അതിന് വ്യത്യസ്തമായ n ഐഗൻ വാല്യൂകളും ഉണ്ട് എങ്കിൽ പിന്നെ A ഡയഗണലൈസബ്ൾ ആണ് തുടർന്ന് കാരണം വ്യക്തമാണ് കാരണം നമുക്ക് വ്യത്യസ്തമായ ഐഗൻ വാല്യൂകൾ ഉണ്ടെങ്കിൽ നമുക്ക് n ലീനിയർലി ഇൻഡിപെൻഡന്റ് ഐഗൻ വെക്ടറുകൾ ലഭിക്കും മുൻ ലെക്ച്ചറിൽ നമ്മൾ കണ്ട ഒരു റിസൾട്ട് ആണ് വ്യത്യസ്തമായ ഐഗൻ വാല്യൂകൾക്കനുസൃതമായി നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ ഐഗൻവെക്ടറുകൾ ഉണ്ടെന്ന് അതിനാൽ ഒടുവിൽ ഇവിടെ ഈ രണ്ടാമത്തെ റിസൾട്ട് മുമ്പത്തെപ്പോലെ തന്നെ അത് ഡയഗണലൈസബ്ൾ ആണ് n ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്റ്ററുകൾ ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ ഒരു കുറിപ്പ് ഉണ്ട് A നെ ഡയഗണലൈസ് ചെയ്യുന്ന ഈ മാട്രിക്സ് P യെ A യുടെ മോഡൽ മാട്രിക്സ് എന്ന് വിളിക്കും അതിൻറെ കോളങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ മാട്രിക്സ് P എങ്ങനെ കണ്ടെത്താം എന്നതാണ് എന്നാൽ ഈ വ്യത്യസ്ത ഐഗൻ വാല്യൂകൾക്കനുസൃതമായ ഐഗൻവെക്റ്ററുകൾ ആയിരിക്കും അതിനാൽ നിങ്ങൾക്ക് n ലീനിയർലി ഇൻഡിപെൻഡന്റ് ഐഗൻവെക്ടറുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അവയെ ഈ മാട്രിക്സ് P ൽ കോളങ്ങളായി സ്ഥാപിക്കും ഇതാണ് നമ്മളുടെ മാട്രിക്സ് P ഈ പരിശോധിക്കുമ്പോൾ ഒന്നും അല്ല അതൊരു ഡയഗണൽ മാട്രിക്സ് മാത്രമാണ് അതിൻറെ ഡയഗണൽ എൻട്രികൾ എല്ലാം ഈ മാട്രിക്സിന്റെ ഐഗൻവാല്യൂസ് മാത്രമായിരിക്കും ഈ മാട്രിക്സ് P യുടെ കോളങ്ങളായി ഈ ശ്രേണിയിൽ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള ഈ ഐഗൻവെക്റ്ററുകളുമായി യോജിക്കുന്നു ഇപ്പോൾ നമുക്ക് ഈ ഉദാഹരണം പരിഗണിക്കാം അതിനാൽ ഐഗൻവാല്യൂകളും ഐഗൻവെക്റ്ററുകളും കമ്പ്യൂട്ടിംഗിനായി നമ്മൾ ഇവിടെ കൂടുതൽ സമയം ചെലവഴിക്കില്ല കാരണം മുമ്പത്തെ ലെക്ച്ചർകളിൽ നമ്മൾ ഇതിനകം കണ്ടിട്ടുണ്ട് അതിനാൽ ഈ ഉദാഹരണത്തിനായി നമുക്ക് ഐഗൻവാലുവുകൾ കണക്കാക്കാം തുടർന്ന് ഇത് 1 6 ആയി വരും തുടർന്ന് നമ്മൾക്ക് ഐഗൻവെക്റ്ററുകൾ ഉണ്ട് അതിനാൽ ഈ ഡിറ്റർമിനന്റ് നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട് ഈ പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ ഉണ്ടാക്കാം 10 പിന്നെ നമുക്ക് ഇവിടെ മൈനസ് 2λ ഉം മൈനസ് 5λ ഉം ഉണ്ടാകും അതിനാൽ മൈനസ് 7 ലാംഡയും കൂടാതെ ഈ ലാംഡ സ്ക്വയറും മൈനസ് 4 ഉം 0 ന് തുല്യമാണ് ഇത് ലാംഡ സ്ക്വയർ മൈനസ് 7 ലാംഡ പ്ലസ് 6 എന്നത് 0 ന് തുല്യമാണ് എന്നാണ് ഘടകങ്ങൾ ആകുമ്പോൾ അത് λ 6λ 10 എന്നാകുന്നു അതിനാൽ ഈ ഐഗൻവാല്യൂകൾ λ1 ഉം λ6 ഉം ആയി നമുക്ക് ലഭിക്കും അതിനാൽ ഈ ഐഗൻ വാല്യൂകൾ ഓരോന്നിനും യോജിച്ച ഐഗൻവെക്റ്റർ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ഇവിടെ നമുക്ക് തീർച്ചയായും വ്യത്യസ്തമായ ഐഗൻ വാല്യൂകൾ ഉണ്ട് അതിനാൽ നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ രണ്ട് ഐഗൻവെക്ടറുകൾ ലഭിക്കും തുടർന്ന് നമുക്ക് ഈ മാട്രിക്സ് ഡയഗണലൈസ് ചെയ്യാൻ കഴിയും അതിനാൽ ഇവിടെ 1 ന് അനുയോജ്യമായ ഐഗൻവെക്റ്ററുകൾ ഈ ആയി വരും ഇത് λ1 മായി പൊരുത്തപ്പെടുന്നു 6 ന് അനുബന്ധമായി നമുക്ക് ഇവിടെ ലഭിക്കും ഇപ്പോൾ നമുക്ക് ഐഗൻവെക്റ്ററുകൾ ലഭിച്ചുകഴിഞ്ഞാൽ നമുക്ക് P എന്ന് വിളിക്കുന്ന ഈ മോഡൽ മാട്രിക്സ് രൂപീകരിക്കാൻ കഴിയും അതിനാൽ P മാട്രിക്സുകൾ എന്നാൽ ഈ വെക്റ്ററുകളാണ് ഈ P യുടെ കോളങ്ങൾ ആയി വരുന്നത് ഈ ഐഗൻവെക്റ്ററുകൾ ആണ് അതിനാൽ ഇവിടെ അതാണ് ആദ്യത്തെ കോളം തുടർന്ന് ഈ രണ്ടാമത്തെ കോളമാണ് അതിനാൽ നമ്മളുടെ മോഡൽ മാട്രിക്സ് ഇപ്പോൾ തയ്യാറാണ് ഈ എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഇവിടെ നമുക്ക് ഈ ലഭിക്കേണ്ടതുണ്ട് അതാണ് ഇൻവേഴ്സ് അതിനാൽ 2 ബൈ 2 മാട്രിക്സിന് ഇത് വളരെ ലളിതമാണ് ഈ ഡിറ്റർമിനന്റ് ഉപയോഗിച്ച് നമ്മൾ ഇവിടെ വിഭജിക്കേണ്ടതുണ്ട് തുടർന്ന് നമ്മൾ ചിഹ്നം മാറ്റേണ്ടതുണ്ട് നിർണ്ണയിക്കുന്നത് വീണ്ടും മൈനസ് ചിഹ്നത്തോടെ ആയിരിക്കും അതിനാൽ ഒടുവിൽ ഈ മാട്രിക്സ് P യുടെ ആയി നമുക്ക് ഇത് ലഭിക്കും ഇത് രണ്ടും ഗുണിച്ചുകൊണ്ട് നമുക്ക് പരിശോധിക്കാൻ കഴിയും നമ്മൾക്ക് ഐഡന്റിറ്റി മാട്രിക്സ് ലഭിക്കുന്നു അതിനാൽ ഇവിടെ നമ്മൾ ഈ കണക്കാക്കുകയാണെങ്കിൽ അത് ആയി വരുന്നു ഇത് ഒരു ഡയഗണൽ മാട്രിക്സ് ആണ് ഡയഗണലിൽ ഐഗൺ വാലുകൾ ആണ് ഇവിടെ കൃത്യമായി പോയിന്റ് ഇതാണ് നമ്മൾ ഈ മോഡൽ മാട്രിക്സിൽ ഈ വെക്റ്റർ മൈനസ് 1 1 ആദ്യ കോളം ആയി സൂക്ഷിച്ചിരിക്കുന്നു അത് ഐഗൻവാലു 1 നോട് യോജിക്കുന്നു അതുകൊണ്ടാണ് ഇവിടെ ഈ ആദ്യ ഐഗൻവാല്യൂ വരുന്നത് രണ്ടാമത്തെ കാര്യത്തിൽ നമ്മൾ ഈ രണ്ടാമത്തെ കോളം 0 6 സൂക്ഷിച്ചു അത് ഇവിടെ 6 നോട് യോജിക്കുന്നു അതിനാൽ ഡയഗണലിലെ രണ്ടാമത്തെ ഘടകം ഇവിടെ 6 ആണ് അതിനാൽ ഈ ഓർഡർ നമ്മൾ ഇവിടെ ക്രമത്തിൽ മാറ്റുകയാണെങ്കിൽ അതിനാൽ നമ്മൾ അത് ആയി മാറ്റുകയാണെങ്കിൽ നമ്മൾ മാറുകയാണെങ്കിൽ ഈ P എടുക്കുകയാണെങ്കിൽ ഈ മോഡൽ മാട്രിക്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെ കാരണം ഇവിടെ 4 1 ഈ 6 നോട് യോജിക്കുന്നു അതിനാൽ അതനുസരിച്ച് ആ ക്രമം മാറും അതിനാൽ ഐഗൻവെക്റ്ററുകളുമായി ബന്ധപ്പെട്ട ഓർഡറിനായി നമ്മൾ ഇവിടെ സ്ഥാപിക്കുന്ന ഓർഡർ ഡയഗണൽ എൻട്രികളിൽ ഐഗൻ വാല്യൂകളായി പിന്തുടരും അതിനാൽ അത് പ്രധാനമാണ് ഇവിടെ സൂചിപ്പിക്കേണ്ട രണ്ടാമത്തെ കാര്യം ഉദാഹരണത്തിന് ഇത് യൂണിക് ആയ ഐഗൻവെക്റ്റർ അല്ല അതിനാൽ നമുക്ക് ഈ ലേക്ക് ഏത് സംഖ്യയാലും ഗുണിക്കാനാകും അത് ഐഗൻവെക്റ്ററും ആയിരിക്കും ഇവിടെ ഈ ലേക്ക് ഏത് സംഖ്യയാലും ഗുണിക്കാനാകും അതും ഒരു ഐഗൻവെക്റ്റർ ആയിരിക്കും കാരണം ഐഗൻവെക്റ്ററുകൾ യൂണിക് അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇവിടെ ഏതു വെക്റ്ററും നിലനിർത്താൻ ഒരു പ്രശ്നവുമില്ല 1 1 കൂടാതെ നമുക്ക് കഴിയും ഉദാഹരണത്തിന് 2 ഉം 2 ഉം ആദ്യ നിരയിൽ ഇവിടെ വയ്ക്കുക രണ്ടാമത്തെ കോളത്തിൽ നമുക്ക് ഇവിടെ 2 കൊണ്ട് ഗുണിക്കാവുന്നതാണ് അതിനാൽ 2 8 അതിനാൽ രണ്ടാമത്തെ കോളത്തിൽ നമുക്ക് 8 ഉം 2 ഉം വയ്ക്കാം അതിനാൽ ഈ പി ഇൻവേഴ്സ്മായി പരിപാലിക്കുന്നതിൽ കാര്യമില്ല എന്നിട്ടും ഈ പ്രോഡക്റ്റ് നമ്മൾക്ക് അതേ ഡയഗണൽ മാട്രിക്സ് 1 0 0 6 ലഭിക്കുന്നു അതിനാൽ ഇവിടെ നമ്മൾ ഈ സ്കെയിലറുകളാൽ ഈ ഐഗൻവെക്റ്ററുകളിലേക്ക് ഗുണിച്ചാലും ഈ കൊണ്ട് അത് പ്രശ്നമല്ല അതേ ഡയഗണൽ മാട്രിക്സും അവയുടെ എൻട്രികൾ 1 ഉം 6 ഉം ആയിരിക്കും ഇവിടെ ഈ ഐഗൻവെക്റ്ററുകൾ സ്ഥാപിക്കുന്നതിനുള്ള ക്രമം മാത്രമേയുള്ളൂ കാര്യം അതിനാൽ ഈ ഐഗൻവെക്റ്ററുകളുടെ ഈ കോളങ്ങൾ സ്ഥാപിക്കുന്ന ക്രമം ആയി അതേ ക്രമത്തിൽ നമ്മൾക്ക് ഇവിടെ ഈ ഐഗൻ വാല്യൂകൾ ദൃശ്യമാകുന്നു ഇവിടെ ഈ 3 ബൈ 3 മാട്രിക്സ് ന്റെ മറ്റൊരു ഉദാഹരണം ഈ മാട്രിക്സിനും ഇത് ഡയഗണലൈസ് ചെയ്യാനാകുമോ ഇല്ലയോ എന്ന് പരിശോധിക്കണമെങ്കിൽ ഡയഗണൽ മാട്രിക്സ് എന്തായിരിക്കും മോഡൽ മാട്രിക്സ് എന്തായിരിക്കും അതിനാൽ അതിനായി നമ്മൾ ഐഗൻ വാല്യൂകൾ കണക്കാക്കേണ്ടതുണ്ട് ഈ മാട്രിക്സിനുള്ള ഐഗൻ വാല്യൂകൾ 2 2 8 എന്നിവ വരും ഐഗൻവെക്ടറുകൾ അതിനാൽ ഇപ്പോൾ മോഡൽ മാട്രിക്സ് രൂപീകരിക്കുന്നതിന് ഓരോ ഐഗൻവാല്യൂവിനും ഐഗൻവെക്റ്റർ കണക്കുകൂട്ടേണ്ടതുണ്ട് ഐഗൻവാല്യൂ 2 അത് ആവർത്തിച്ചു വന്നിട്ടുണ്ട് അതിനാൽ ഇവിടെ 2 ന്റെ അൽജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി 2 ആണ് ഇപ്പോൾ നമ്മൾ 2 ന് അനുബന്ധമായുള്ള ഐഗൻവെക്റ്റർ കണക്കുകൂട്ടുന്നു ഈ 2 മൈനസ് 2 ഉം മൈനസ് 2 ഉം അതിനാൽ ലീനിയർ സമവാക്യങ്ങളുടെ സംവിധാനമായി നമ്മൾ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്ന മാട്രിക്സ് ആയിരിക്കും അതിനാൽ അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് യഥാർത്ഥത്തിൽ ഇവിടെ 3 ലീനിയർലീ ഇൻഡിപെൻഡൻസ് ആയ ഐഗൻവെക്റ്റർ ലഭിക്കുന്നു അതായത് 2 ന്റെ ജ്യോമെട്രിക് മൾട്ടിപ്ലിസിറ്റി 2 ആണ് അൽജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി 2 ആയതിനാൽ ഈ പ്രത്യേക കേസിലെ ജ്യോമെട്രിക് മൾട്ടിപ്ലിസിറ്റി 2 ആയി വരുന്നു അതിനാൽ ഇത് ഈ 2 നോട് യോജിക്കുന്നു ഇതും 2 നോട് യോജിക്കുന്നു ഇവിടെ നമുക്ക് ഇത് 8 മായി യോജിക്കുന്നു അതിനാൽ നമ്മൾക്ക് 3 ലീനിയർലീ ഇൻഡിപെൻഡൻസ് ആയ ഐഗൻവെക്റ്റർ ഉണ്ട് അതാണ് ഇപ്പോൾ നമ്മൾക്ക് ഈ മാട്രിക്സ് ഡയഗണലൈസ് ചെയ്യാൻ കാരണം കാരണം നമ്മൾക്ക് 3 ആവശ്യമാണ് ഇവിടെ ഓർക്കുക മോഡൽ മാട്രിക്സ് P A യുടെ അതേ ക്രമത്തിലായിരിക്കും അതിനാൽ മാട്രിക്സ് P നിറയ്ക്കാൻ നമ്മൾക്ക് ഈ 3 കോളങ്ങൾ ആവശ്യമാണ് അതിനാൽ നമുക്ക് 3 ലീനിയർലീ ഇൻഡിപെൻഡൻസ് വെക്റ്ററുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് രൂപീകരിക്കാം അല്ലാത്തപക്ഷം ഉദാഹരണത്തിന് 2 ന് അനുബന്ധമായി നമുക്ക് 1 ഐഗൻവെക്റ്റർ മാത്രമേയുള്ളൂവെങ്കിൽ നമുക്ക് ഈ P രൂപപ്പെടുത്താൻ കഴിയില്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മാട്രിക്സ് A ആ കേസിൽ ഡയഗണലൈസ് ചെയ്യാനാകില്ല അതിനാൽ ഇവിടെ മാട്രിക്സ് A ഡയഗണലൈസബ്ൾ ആണ് കാരണം നമ്മൾക്ക് 3 ലീനിയർ ഇൻഡിപെൻഡന്റ് ഐഗൻവെക്ടറും മോഡൽ മാട്രിക്സും ലഭിക്കുന്നു ആദ്യ രണ്ട് കോളങ്ങളും 2 ന് അനുബന്ധമായതും മൂന്നാമത്തേത് നമ്മൾക്ക് ഈ 2 മൈനസ് 1 1 8 ന് അനുബന്ധമായതും മൂന്നാമത്തെ നിരയായി ഉണ്ട് അതിനാൽ നമ്മളുടെ ഓർഡർ ഇത് കൃത്യമായി തുടരും ഇത് മാട്രിക്സ് ന്റെ ഡയഗണൽ എൻട്രികളായി മാറും അതിനാൽ നിങ്ങൾ ഇപ്പോൾ കണക്കുകൂട്ടുകയാണെങ്കിൽ

അതിനാൽ നമുക്ക് ഈ ലഭിക്കേണ്ടതുണ്ട് തുടർന്ന് ഈ പ്രോഡക്റ്റ് നമ്മൾ നിർമ്മിക്കേണ്ടതുണ്ട് തുടർന്ന് നമ്മൾക്ക് ഈ 2 2 8 ലഭിക്കുകയും കൃത്യമായി ഈ ഐഗൻവെക്റ്ററുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഓർഡർ ലഭിക്കുകയും ചെയ്യും അതിനാൽ ഈ ഡയഗണൽ എൻട്രികൾ ഇവിടെ തികച്ചും സമാനമാണ് 2 2 8 അതിനാൽ ഇവിടെയാണ് ഡയഗ്രണൽ മാട്രിക്സ് അത് മാട്രിക്സ് A യ്ക്ക് സിമിലർ ആണ് പിന്നീട് ഈ മാട്രിക്സിനെ കുറിച്ചുള്ള നിരവധി നല്ല സവിശേഷതകൾ നമ്മൾ നിരീക്ഷിക്കും കാരണം അവ ഈ സിമിലർ മാട്രിക്സുകളും ചില ആപ്ലിക്കേഷനുകളും പൊതുവായ പലതും പങ്കിടുന്നു വളരെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനുകളിലൊന്ന് നമുക്ക് ഒരിക്കൽ മാട്രിക്സ് ഡയഗണലൈസ് ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് അവയെ പല ആപ്ലിക്കേഷനുകളിലും ഉപയോഗിക്കാം അതിനാൽ ഈ ലെക്ച്ചർന്റെ ചർച്ചാവിഷയവും അതായിരിക്കും അതിനാൽ ഇവിടെ അവസാനത്തെ ഉദാഹരണം നമ്മൾ മറ്റൊന്ന് എടുക്കും ഇവിടെ നമ്മൾ കാണുന്നത് ഡയഗണലുകളിൽ 2 2 3 എന്നീ എൻട്രികളുള്ള ലോവർ ട്രയാൻഗുലാർ മാട്രിക്സ് ആണ് ഈ 4 ഒഴികെ മറ്റെല്ലാം 0 ഉണ്ട് അതിനാൽ ഈ സാഹചര്യത്തിൽ ഐഗൻവാലുവുകൾ കണക്കുകൂട്ടിയാൽ ട്രയാൻഗുലാർ മാട്രിക്സ്ന് നമുക്ക് അറിയാം അതിനാൽ ഇത് 2 2 3 ആകുന്നു അതിനാൽ ഐഗൻ വാല്യൂകൾ 2 2 3 ആയിരിക്കും കൂടാതെ 2 നും 3 നും അനുയോജ്യമായ ഐഗൻവെക്റ്ററുകൾ നമ്മൾ വീണ്ടും കണക്കുകൂട്ടേണ്ടതുണ്ട് 2 എന്നത് 2 പ്രാവശ്യം ആണ് അതിനാൽ 2 ന്റെ അൽജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി 2 ആണ് പക്ഷേ ഈ 2 ന്റെ ജ്യോമട്രിക് മൾട്ടിപ്ലിസിറ്റി 1 ആണ് അതാണ് പോയിന്റ് യഥാർത്ഥത്തിൽ നമുക്ക് സിസ്റ്റം ഡയഗണലൈസ് ചെയ്യാൻ കഴിയില്ല കാരണം ഈ ഐഗൻവാല്യൂ 2 ന്റെ അൽജിബ്രൈക് മൾട്ടിപ്ലിസിറ്റിക്ക് തുല്യമല്ല ജ്യോമട്രിക് മൾട്ടിപ്ലിസിറ്റി അപ്പോൾ നമുക്ക് കുറഞ്ഞ എണ്ണം ഐഗൻവെക്റ്ററുകൾ ലഭിക്കുകയുള്ളൂ ഈ മോഡൽ മാട്രിക്സ് P നമുക്ക് രൂപീകരിക്കാൻ കഴിയില്ല എന്നിവയാണ് ഐഗൻവെക്റ്ററുകൾ അതിനാൽ ഇവിടെ 2 ഐഗൻവാലുവുകൾക്ക് അനുബന്ധമായി നമുക്ക് 1 ഐഗൻവെക്റ്റർ മാത്രമേ ലഭിക്കുന്നുള്ളൂ കാരണം ഈ സമവാക്യം A λIx0 രൂപപ്പെടുത്തിയാൽ ഇവിടെ എന്ത് സംഭവിക്കും നമുക്ക് ഇത് 0 0 0 ലഭിക്കുന്നു തുടർന്ന് നമുക്ക് ഇവിടെ വീണ്ടും ഇത് 4 0 0 അവസാനം 0 0 1 ഇതാണ് ഐഗൻവെക്റ്ററിന്റെ ഈ സമവാക്യ വ്യവസ്ഥയുടെ അവസ്ഥ ഇവിടെയും വലതുവശത്തും 0 അതിനാൽ ഈ സമവാക്യ സംവിധാനത്തിന് ഇവിടെ 2 പിവറ്റ് എലമെന്റ് 4 ഉം 1 ഉം ഉണ്ടെന്ന് നമ്മൾ ഇവിടെ നിരീക്ഷിക്കുന്നു ഇവയാണ് പിവറ്റ് എലെമെന്റുകൾ ഒരു ഫ്രീ വേരിയബിൾ മാത്രമാണ് നമുക്ക് ഇവിടെയുള്ളത് അത് x2 ആണ് അതിനാൽ x 2 ഫ്രീ വേരിയബിൾ ആണ് അതായത് ഈ x 2 നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം അതിനാൽ നമുക്ക് ഈ ആൽഫ എടുക്കാം തുടർന്ന് ഈ സമവാക്യങ്ങളിൽ നിന്ന് നേരിട്ട് ഈ രണ്ടാമത്തെ സമവാക്യത്തിൽ നിന്ന് x 1 എന്നത് 0 ആണെന്നും ഈ മൂന്നാം സമവാക്യത്തിൽ നിന്ന് x 3 എന്നത് 0 ന് തുല്യമാണെന്നും നമ്മൾ നിരീക്ഷിക്കുന്നു ഈ കേസിൽ ഈ ആവർത്തിച്ചുള്ള ഐഗൻ വാല്യൂവുമായി ബന്ധപ്പെട്ട x1 x2 x3 ഐഗൻവെക്റ്റർകൾ 0 1 0 ഉം ഈ 0 1 0 ന്റെ ഏതെങ്കിലും ഗുണിതവുമായി വരുന്നു അതിനാൽ ഇവിടെ നമ്മൾ ആൽഫ 1 എടുത്തു അതിനാൽ ഇത് ഐഗൻവെക്റ്റർകളിൽ ഒരെണ്ണം മാത്രം ആണ് 3 ന് അനുബന്ധമായ ഐഗൻവെക്റ്റർ കണ്ടുപിടിക്കുന്നു അത് 1 ആയിരിക്കും നമുക്ക് 2 മൈനസ് 1 ഉം 1 ഈ 2 വെക്റ്ററുകളും ഉള്ളതിനാൽ ഈ മോഡൽ മാട്രിക്സ് P യുടെ സ്ഥാനങ്ങൾ നിറയ്ക്കാൻ നമ്മൾക്ക് 3 വെക്റ്ററുകൾ ആവശ്യമാണ് അതിനാൽ ഈ കേസിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല കാരണം നമ്മൾക്ക് 2 ലീനിയർലി ഇൻഡിപെൻഡന്റ് ഐഗൻവെക്ടറുകൾ ലഭിക്കുന്നു അതിനാൽ നൽകിയിരിക്കുന്ന ഈ മാട്രിക്സ് A ഡയഗണലൈസബ്ൾ അല്ല അതിനാൽ ഇവിടെ നമ്മൾ കണ്ടത് എല്ലാ മാട്രിക്സും നമുക്ക് ഡയഗണലൈസ് ചെയ്യാൻ കഴിയില്ല ഈ ഐഗൻ വെക്റ്ററുകളുടെ സെറ്റ് പൂർണ്ണമായിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ മാട്രിക്സ് ഡയഗണലൈസ് ചെയ്യാൻ കഴിയൂ അതായത് ഒരു n × n മാട്രിക്സ് ആണെങ്കിൽ നമുക്ക് n ലീനിയർലി ഇൻഡിപെൻഡന്റ് ഐഗൻ വെക്റ്ററുകൾ ലഭിച്ചാൽ നമുക്ക് മാട്രിക്സ് ഡയഗണലൈസ് ചെയ്യാം അല്ലാത്തപക്ഷം നമുക്ക് മാട്രിക്സ് ഡയഗണലൈസ് ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ ഡയഗണലൈസേഷന്റെ ആപ്ലിക്കേഷനുകളിലേക്ക് വരുമ്പോൾ നമ്മൾ പരിഗണിക്കുന്നത് മാട്രിക്സ് ഡയഗണലൈസ് ചെയ്തുകഴിഞ്ഞാൽ നമുക്ക് മാട്രിക്സിന്റെ പവർ എളുപ്പത്തിൽ കണക്കുകൂട്ടാൻ കഴിയുമെന്ന് ആണ് ഇവിടെ ഐഗൻ വാല്യൂകൾ ഐഗൻവക്റ്ററുകളുമായുള്ള ബന്ധം എന്താണ് എന്ന് ഇപ്പോൾ നമ്മൾ കാണാനിരിക്കുന്നു അതിനാൽ ഈ നമ്മൾ കണ്ടത് A ഡയഗണലൈസ് ചെയ്യാൻ കഴിയും അപ്പോൾ നമുക്ക് ഈ ബന്ധം എന്നത് D ന് തുല്യമാണ് അല്ലെങ്കിൽ A എന്നത് ന് തുല്യമാണെന്ന് നമുക്ക് വീണ്ടും മാറ്റി എഴുതാം ആദ്യം ഇവിടെ P കൊണ്ട് ഗുണിച്ചാൽ ആദ്യം PD ഉണ്ടാകും വലത് വശം നമ്മൾ കൊണ്ട് ഗുണിക്കും അതിനാൽ ഈ ബന്ധത്തിൽ നിന്ന് നമുക്ക് എന്ന് പുറത്തുവരും അതിനാൽ ഈ ബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുണിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്ക് ഈ A പവർ 2 അല്ലെങ്കിൽ ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ നെ കൊണ്ട് ഗുണിക്കേണ്ടതുണ്ട് തുടർന്ന് ഈ പ്രോഡക്റ്റ്ൻറെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഈ അവിടെ നമുക്ക് ഐഡൻറിറ്റി മാട്രിക്സ് ആയി സ്ഥാപിക്കാൻ കഴിയും തുടർന്ന് നമ്മൾക്ക് ലഭിക്കുന്നു അതായത് ഈ P ഈ ഡയഗണൽ മാട്രിക്സിന്റെ പവർ ശേഷം എന്നിവയാണ് അതിനാൽ ഇവിടെ എ സ്ക്വയർ ഈ മാട്രിക്സിന്റെ പവർ കൃത്യമായി ഈ ഡയഗണൽ മാട്രിക്സിന്റെ പവർലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നു ഇവിടെ എന്താണ് പ്രയോജനം ഈ ഡയഗണൽ മാട്രിക്സ് നമുക്ക് ഇവിടെ പവർ എളുപ്പത്തിൽ ലഭിക്കുന്നതിനാൽ കാരണം ഈ പവർ നേരിട്ട് ഈ ഡയഗണൽ എൻട്രിയിലേക്ക് പോകും അതിനാൽ ഈ പവർനായി നമ്മൾ ഇവിടെ ഈ മാട്രിക്സ് D യെ ഗുണിക്കേണ്ടതില്ല പക്ഷേ ഡയഗണൽ എൻട്രികൾ മാത്രമേ സ്ക്വയർ ആകൂ അതാണ് ഇവിടെ കാരണം അതിനാൽ വളരെ ലളിതമാണ് അത് ആണ് അതിനാൽ നമ്മൾ ഈ ഗുണനങ്ങൾ മാത്രമേ ചെയ്യാവൂ

സ്വാഭാവികമായും നമുക്ക് ഇവിടെ ഒരു ഉയർന്ന പവർ ഉള്ളപ്പോൾ രണ്ട് മാത്രമല്ല കാരണം ഏത് സാഹചര്യത്തിലും ഇപ്പോൾ നമ്മൾ ഈ ഗുണനം ചെയ്യണം അതിനാൽ ഈ പവർ 2 കണ്ടുപിടിക്കണമെങ്കിൽ സ്വാഭാവികമായും ഇവിടെ ജോലി കൂടുതലാണ് എന്നാൽ ഉദാഹരണത്തിന് നമുക്ക് പവർ 1000 ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഇത് വളരെ ഉപയോഗപ്രദമാകും കാരണം D യുടെ ഉയർന്ന പവർ കണക്കുകൂട്ടാൻ എളുപ്പമായിരിക്കും പിന്നെ എന്തുകൊണ്ടാണ് ഈ ആയി വരുന്നത് ഉദാഹരണത്തിന് നമുക്ക് ഈ ആശയം തുടരാം നും സമാനമായ ഘടന സംഭവിക്കും അതിനാൽ ഈ എന്നത് ന് വേണ്ടിയുള്ളതാണ് തുടർന്ന് വീണ്ടും A കൊണ്ട് ഗുണിച്ചാൽ ഈ വീണ്ടും ഐഡന്റിറ്റി മാട്രിക്സ് ആകും നമുക്ക് ഉം ഉണ്ടാകും അതിനാൽ ഈ കണക്കുകൂട്ടലുകളിൽ നിന്ന് നമുക്ക് കാണാനാകുന്ന കാര്യം എന്താണ് ഇവിടെ വെറും മാത്രമായിരിക്കും ഈ ആണ് അതിനാൽ ഈ മാട്രിക്സ് D യിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ ഈ പവർ എടുക്കുന്നത് ഇവിടെ തുടരും അതിനാൽ പൊതുവെ ആണെന്ന് നമുക്ക് തെളിയിക്കാനാകും അതിനാൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഈ മാട്രിക്സിന്റെ ഉയർന്ന പവർ ഇവിടെ ഒരു വലിയ സംഖ്യ കണക്കാക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഇത് ഉപയോഗിക്കാം തുടർന്ന് ഇത് വളരെ ഉപയോഗപ്രദമാണ് കാരണം ഇവിടെ കണക്കുകൂട്ടൽ വളരെ ലളിതമാണ് കാരണം ഉദാഹരണത്തിന് നമ്മൾ 2 ഡയഗണൽ മാട്രിക്സ് എടുക്കുകയാണെങ്കിൽ ഇത് ഇവിടെയുണ്ട് അതോടൊപ്പം ഗുണിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇത് ഗുണിച്ചാൽ വരും ഈ പ്രോഡക്റ്റ് ഇവിടെ 0 ആയിരിക്കും കൂടാതെ ഇത് 0 ആകും കൂടാതെ വരും അതിനാൽ നമ്മൾ ഡയഗണൽ മാട്രിക്സിന്റെ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ഈ പവർ ചെയ്യും ഈ പവർ ഡയഗണൽ എൻട്രികളിലേക്ക് പോകും അതിനാൽ നമുക്ക് പവർ n ഉള്ളപ്പോൾ മാട്രിക്സ് ഗുണനമായി ഈ ഗുണനം ചെയ്യേണ്ടതില്ല ഉദാഹരണത്തിന് നമ്മൾക്ക് ഇത് ഒരു ഉണ്ട് ഈ പവർ n ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഇത് ഒന്നുമല്ല a പവർ n പൂജ്യവും b പവർ n അതാണ് ഇവിടത്തെ വിഷയം അതിനാൽ ഒന്നുമല്ല ഇവിടെ എന്ന ഈ ബന്ധം ഉണ്ടായിരിക്കുക അതിനാൽ അത് കണക്കുകൂട്ടാൻ വളരെ ലളിതമാണ് ഒടുവിൽ നമ്മൾ എന്ന ഈ പ്രോഡക്റ്റ് നിർമ്മിക്കേണ്ടതുണ്ട് അതിനാൽ ഈ മാട്രിക്സ് ഗുണനത്തിനായുള്ള ഏക കണക്കുകൂട്ടൽ ലോഡ് ഇവിടെയാണ് പക്ഷേ D പവറിന് ഇവിടെ രേഖീയ ബന്ധങ്ങൾ മാത്രം അതിനാൽ ഈ ഡയഗണൽ എൻട്രികൾ പവർ ചെയ്യപ്പെടും മറ്റൊന്നുമല്ല നായി കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് പോകാം പക്ഷേ അങ്ങനെ ചെയ്യുന്നതിന് ഐഗൻ വാല്യൂകളും ഐഗൻവെക്ടറുകളും കണക്കാക്കേണ്ടതുണ്ട് കാരണം നമ്മൾക്ക് ആ P ആവശ്യമാണ് കൂടാതെ നമ്മൾക്ക് ആ ഡയഗണൽ മാട്രിക്സും ആവശ്യമാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ ഐഗൻ വാല്യൂകൾ 1 2 ആയി വരുന്നു തുടർന്ന് നമ്മൾ മൈനസ് 1 ന് യോജിക്കുന്ന ഐഗൻവെക്റ്ററുകൾ കണക്കാക്കുന്നു ഇത് ആണ് 2 ന് അനുബന്ധമായി ഇത് ആയി വരുന്നു ഇവ ഉള്ളതിനാൽ നമുക്ക് ഇപ്പോൾ ഈ മോഡൽ മാട്രിക്സ് P രൂപീകരിക്കാം അതിനാൽ ഈ ഐഗൻവെക്ടറുകൾ കോളങ്ങളായി ഇവിടെ സ്ഥാപിക്കുക എടുക്കുക അതിനാൽ യഥാർത്ഥത്തിൽ നമുക്ക് വളരെ ഉയർന്ന ഒരു പവർ കണക്കാക്കാൻ കഴിയും കൂടാതെ കണക്കുകൂട്ടൽ ലോഡ് അതേപടി നിലനിൽക്കും നമ്മൾ ചെയ്യേണ്ട ഒരേയൊരു കാര്യം ഡയഗണൽ എൻട്രികളുടെ ഈ പവർ ഇവിടെ ചെയ്യേണ്ടതുണ്ട് അതിനാൽ പിന്നീട് ഏത് കേസാണെങ്കിലും നമുക്ക് ഈ P യും P 1 ഉം കൊണ്ട് ഗുണിക്കേണ്ടതുണ്ട് അതിനാൽ ഈ റിലേഷൻ ഉള്ളതിനാൽ മാട്രിക്സ് A യുടെ ഏതു പവറും കണ്ടെത്തുന്നത് ഇപ്പോൾ എളുപ്പമാണ് അതിനാൽ അത് A പവർ 5 ആണ് എന്നാൽ ഈ മാട്രിക്സ് A യുടെ ഉയർന്ന പവർ കണക്കുകൂട്ടാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഇത് സാധാരണയായി ഉപയോഗിക്കുന്നു തുടർന്ന് മാട്രിക്സ് A യുടെ സാധാരണ ഗുണനവും ആയി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് കണക്കുകൂട്ടലിൽ വളരെ കാര്യക്ഷമമാണ് അതിനാൽ ഈ ഐഗൻ വാല്യൂകൾ ഐഗൻവെക്റ്ററുകൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മാട്രിക്സിന്റെ ഡയഗണലൈസേഷന്റെ ഈ ആശയം നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകളിൽ ഒന്ന് ആയി ഇവിടെയുണ്ട് ഇപ്പോൾ ലീനിയർ ഡിഫറൻഷ്യൽ സമവാക്യങ്ങളുടെ പരിഹാരമായ അടുത്ത ആപ്ലിക്കേഷനിലേക്ക് വരുന്നു എന്നിരുന്നാലും ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ അടുത്ത കുറച്ച് ലെക്ച്ചർകളുടെ വിഷയമായിരിക്കും എന്നാൽ ഇവിടെ ഈ ആശയം അല്ലെങ്കിൽ ഈ ഡയഗണണലൈസേഷന്റെ പ്രയോഗം അവതരിപ്പിക്കാൻ നമ്മൾ വളരെ ലളിതമായ ഉദാഹരണവും ചെയ്യും അതിനാൽ ഇവിടെ നമ്മൾ ലീനിയർ ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ പരിഗണിക്കുന്നു ഇവിടെ ഇത് ഒരു സിസ്റ്റമാണ് സിസ്റ്റം എന്നാൽ നമുക്ക് ഒന്നിലധികം ഡിഫറൻഷ്യൽ സമവാക്യങ്ങളുണ്ട് അവയുടെ വേരിയബിളുകൾ കൂടിച്ചേരുന്നു അതിനാൽ ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് ഇത് ഉണ്ട് ഇടത് വശത്ത് ഇതാണ് ഡെറിവേറ്റീവ് പദം ലീനിയർ ഡിഫറൻഷ്യൽ സമവാക്യങ്ങളുടെ സിസ്റ്റം പരിഗണിക്കുക A ഡയഗണലൈസബ്ൾ ആണെന്ന് നമുക്ക് അനുമാനിക്കാം അപ്പോൾ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നു അതിനാൽ ഇവിടെ ഉള്ള പ്രയോജനം നമ്മളുടെ സിസ്റ്റം റെഡ്യൂസ്ഡ് സിസ്റ്റം ആകുന്നു ഇവിടെ നിന്ന് നമുക്ക് ഡെറിവേറ്റീവുകൾ ഉണ്ട് ഇവിടെ നമുക്ക് ഈ ഡയഗണൽ മാട്രിക്സ് ഉണ്ട് തുടർന്ന് നമുക്ക് അൺനോൺ y ഉണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഗുണനം നോക്കിയാൽ നമുക്ക് എന്താണ് ലഭിക്കുന്നത് നമുക്ക് ഈ n സമവാക്യങ്ങൾ ലഭിക്കുന്നു ഇവിടെ കോൺസ്റ്റൻന്റ് ആണ് എന്നത് യുമായി ബന്ധപ്പെട്ട ഐഗൻവെക്റ്റർ ആണ്

അതിനാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് സമവാക്യങ്ങളുടെ സിസ്റ്റത്തിനായി നൽകിയിരിക്കുന്ന ഈ യഥാർത്ഥ കോയിഫിഷ്യന്റ് മാട്രിക്സ് A നമ്മൾ കണക്കുകൂട്ടേണ്ടതുണ്ട് നമുക്ക് ലാംബഡകളും അതായത് ഐഗൻവാല്യൂകളും അനുബന്ധ ഐഗൻവെക്റ്ററുകളും കണക്കാക്കേണ്ടതുണ്ട് അതിനുശേഷം നമുക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയും അതിനാൽ ഇത് തെളിയിക്കാൻ നമ്മൾ ഇവിടെ ലളിതമായ ഉദാഹരണം എടുത്തു

നമുക്ക് ഇവിടെ സിസ്റ്റം ഫോമിൽ വീണ്ടും ഇതിനെ മാറ്റി എഴുതാം അതിനാൽ അതിനാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ മാട്രിക്സിന്റെ ഐഗൻവാല്യൂസും ഐഗൻവെക്ടറും നമ്മൾ ഇവിടെ കണക്കുകൂട്ടേണ്ടതുണ്ട് ഈ മാട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എഴുതുമ്പോൾ ഐഗൻവാല്യൂസ് വരുന്നു ഐഗൻവെക്ടറുകൾ അതിനാൽ എന്ന് എഴുതാം ഡയഗണലൈസേഷന്റെ സഹായത്തോടെ നമ്മൾ ഇവിടെ കണ്ടത് അത്തരമൊരു സംവിധാനം പരിഹരിക്കാൻ ഇത് വളരെ എളുപ്പമായിരുന്നു നമ്മൾ കൺക്ലൂഷനിലേക്ക് വരുന്നു നമ്മൾ പഠിച്ച മാട്രിക്സിന്റെ ഈ ഡയഗണലൈസേഷൻ പ്രത്യേകിച്ചും രണ്ട് ആപ്ലിക്കേഷനുകളും മാട്രിക്സിന്റെ പവറും ഇതിന്റെ സഹായത്തോടെ നമുക്ക് എളുപ്പത്തിൽ കണക്കുകൂട്ടാൻ കഴിയും എന്നത് നമ്മൾ കണ്ടു ഈ ഡയഗണണലൈസേഷൻന്റെ ആശയം ഉപയോഗിച്ച് നമുക്ക് ലീനിയർ ഡിഫറൻഷ്യൽ സമവാക്യങ്ങളുടെ സിസ്റ്റത്തിന്റെ പരിഹാരവും എളുപ്പത്തിൽ കണക്കുകൂട്ടാൻ കഴിയുന്നു ഇവയാണ് നമ്മൾ ഉപയോഗിച്ച റഫറൻസുകൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി